മുമ്പത്തെ നിയമങ്ങളെല്ലാം അവ്യക്തമായിരുന്നു വ്യവസ്ഥകൾ എന്തുതന്നെയായാലും അത് പ്രശ്നമല്ല ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി സങ്കീർണ്ണമായ നിയമങ്ങൾ എഴുതാൻ പോകുന്നു അവ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവ സ്വാഭാവിക ജോയിൻ അല്ല എന്നതിന് തുല്യമാണ് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നത് E2 E3 എന്നിവയിൽ നിന്നുള്ള ആട്രിബ്യൂട്ട് മാത്രം ഉൾക്കൊള്ളണം E2 നും E3 നും ഇടയിൽ മാത്രമാണ് അതിൽ E1 ൽ നിന്നുള്ള ഒരു ആട്രിബ്യൂട്ടും അടങ്ങിയിട്ടില്ല ഇതാണ് അവിടെ ഉണ്ടായിരിക്കേണ്ട അവസ്ഥ അതാണെങ്കിൽ വേർതിരിക്കാനും ആദ്യം E2 നും E3 നും ഇടയിൽ പ്രയോഗിക്കാനും തുടർന്ന് E1 മായി ജോയിൻ ചെയ്യാനും കഴിയും അതാണ് ആശയം കാരണം ഇത് E1 നെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അതിനാൽ E1 പിന്നീട് ജോയിൻ ചെയ്യാൻ കഴിയും അത് വേർതിരിക്കാനും സമാനമായ ഒരു നിയമം പിന്തുടരാനും കഴിയും ഇത് ജോയിൻ ചെയ്യുന്നതിന് തുല്യമാണ് ഒരിക്കൽ കൂടി ഇവിടെ E1 ൽ നിന്നുള്ള ആട്രിബ്യൂട്ട് ഉൾപ്പെടുന്നു E2 ൽ നിന്നുള്ള ആട്രിബ്യൂട്ട് ഉൾപ്പെടുന്നില്ല എന്നതാണ് വ്യവസ്ഥ അതിനാൽ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ E1 E2 എന്നിവയിൽ എല്ലാ E2 ൽ നിന്നുമുള്ള ആട്രിബ്യൂട്ടുകൾ അടങ്ങിയിരിക്കും എന്നാൽ ഇതിൽ E1 ൽ നിന്നുള്ള ആട്രിബ്യൂട്ടുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ സെലക്ഷനിൽ E2 ൽ ഒരു തിരഞ്ഞെടുപ്പും നടത്താൻ പോകുന്നില്ല സെലക്ഷൻ നടത്താം ഒരു പ്രീ സെലക്ഷനും നടത്താം ഒരു വ്യവസ്ഥ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം E2 ൽ നിന്നുള്ള ഏതെങ്കിലും ആട്രിബ്യൂട്ട് അടങ്ങിയിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ശരിയാകൂ കാരണം ഇത് E1 ലും പ്രയോഗിക്കാൻ കഴിയും E1 മറ്റെന്തെങ്കിലും ജോയിൻ ചെയ്തതാണോ എന്നത് ബാധിക്കാൻ പോകുന്നില്ല അടുത്തത് വീണ്ടും അല്പം സമാനമായ നിയമമാണ് എന്നൊരു വ്യവസ്ഥയുണ്ടെന്ന് കരുതുക ഇവ താഴെ പറയുന്ന രീതിയിൽ ചെയ്യാം നിങ്ങൾ അൽപനേരം ചിന്തിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതു പോലെ ൽ ആട്രിബ്യൂട്ട് അടങ്ങിയിരിക്കുന്നത് E1 ൽ നിന്ന് മാത്രമാണ് E2 ൽ നിന്നല്ല ൽ ആട്രിബ്യൂട്ട് അടങ്ങിയിരിക്കുന്നത് E1 ൽ നിന്നല്ല E2 ൽ നിന്നാണ് കാരണം നമ്മൾ നേരത്തെ വാദിച്ചതുപോലെ E2 നെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിനാൽ ആദ്യം E 1 ൽ പ്രയോഗിക്കാൻ കഴിയും അതുപോലെ ആദ്യം E2 ൽ പ്രയോഗിക്കാവുന്നതാണ് അതിനുശേഷം അവ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഈ നിയമങ്ങൾ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഇവ വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യുന്നതിന് കാരണമാകുമെന്ന് നിങ്ങൾ കാണുന്നു ഇവ ചെറിയ റിലേഷൻ ആയിത്തീരും നമ്മൾ പരിഹരിക്കുന്ന എക്സ്പ്രഷൻ ട്രീകളിൽ ഇത് കൃത്യമായി ചെയ്തു അതിനാൽ ബ്രാഞ്ച് സിറ്റി E1 ലേക്ക് കൊണ്ടുവന്നു കാരണം ബ്രാഞ്ച് സിറ്റി മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല ഇത് ഈ തീറ്റകളെക്കുറിച്ചാണ് തുടർന്ന് ചില പ്രൊജക്ഷൻ നിയമങ്ങൾ ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം ഈ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് മുമ്പത്തെ നിയമവുമായി ഈ നിയമത്തിന്റെ സമാനത ശ്രദ്ധിക്കുക സെലക്ഷന് പകരം പ്രൊജക്ഷൻ ഉണ്ട് വീണ്ടും റൂൾ ഒന്നുതന്നെയാണ് യിൽ L1 L2 എന്നിവ ഉൾപ്പെടുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ അതിനാൽ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് യിൽ L1 L2 എന്നിവയിൽ നിന്നുള്ള ആട്രിബ്യൂട്ടുകൾ ഉൾക്കൊള്ളണം എന്നതാണ് യിൽ മറ്റെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മറ്റ് ചില ആട്രിബ്യൂട്ടുകൾ അപ്പോൾ അത് ഇതിലേക്ക് നഷ്ടപ്പെടും അതിനാൽ യിൽ L 1 L 2 എന്നിവയിൽ നിന്നുള്ള ആട്രിബ്യൂട്ട് അടങ്ങിയിരിക്കണം അല്ലാത്തപക്ഷം അത് സംഭവിക്കില്ല കാരണം ആ ആട്രിബ്യൂട്ടുകൾ നഷ്ടപ്പെടും അപൂർണ്ണമാകുമ്പോൾ അത് പ്രയോഗിക്കാൻ കഴിയില്ല അതാണ് നമ്പർ 1 നമ്പർ 2 എന്നാൽ L1 നെ ബാധിക്കുന്ന ആട്രിബ്യൂട്ടുകൾ E1 മാത്രമാണ് E2 അല്ല അതുപോലെ L2 നെ ബാധിക്കുന്നത് E1 അല്ല E2 മാത്രമാണ് ഇത് മുമ്പത്തേതിന് സമാനമാണ് പക്ഷേ ഇത് ഒരു പ്രധാന വ്യവസ്ഥയാണ് കൂടാതെ എന്നത് L1 L2 എന്നിവയ്ക്ക് പുറത്തായിരിക്കരുത് കുറച്ചുകൂടി സങ്കീർണ്ണമായ ഇക്വിവലൻസ് റൂൾ ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം ഈ പദപ്രയോഗത്തിന്റെ ഇടതുവശത്ത് മുമ്പത്തേത് പോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു അത് എന്താണ് ചെയ്യുന്നത് അത് മറ്റ് ആട്രിബ്യൂട്ടിലേക്ക് കൊണ്ടുവരുന്നു L1 ഉണ്ട് ഇത് L3 ആണ് ശ്രദ്ധിക്കുക ഇടതുവശത്ത് L3 ഇല്ല എന്നാൽ ഞാൻ L3 എന്താണെന്ന് വിശദീകരിക്കാൻ പോകുന്നു അതിനുശേഷം ഇത് ജോയിൻ ചെയ്യാം Refer Time 0602 ഒരിക്കൽ കൂടി മറുവശത്ത് L4 ഇല്ല അതിൽ ഇപ്പോൾ L3 L4 എന്നിവ ഉൾപ്പെടുന്നു അതിൽ L1 L2 എന്നിവ ഉൾപ്പെടുന്നില്ല പകരം L3 L4 എന്നിവ ഉൾപ്പെടുന്നു ഇവ പ്രയോഗിക്കുന്നതിന് E1 ൽ L3 അടങ്ങിയിരിക്കണം ഈ ഭാഗത്ത് L3 ഉം ഈ ഭാഗത്ത് L4 ഉം അടങ്ങിയിരിക്കണം ഇത് സെലക്റ്റ് ചെയ്യുകയും ഈ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുകയും വേണം L3 ഈ വശത്തും L4 ഈ വശത്തും ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം L1 E1ൽ നിന്ന് വേർതിരിക്കപ്പെട്ടതിനാൽ L1ൽ E1 മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ E2 ൽ അല്ല L2 ൽ E2 മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ E1 അല്ല അതാണ് നമ്പർ 2 L3 ഇവിടെ ഒരു വശത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം L3 എന്നത് E1 നെക്കുറിച്ചാണ് നോക്കുന്നത് E2 നെക്കുറിച്ചല്ല L3 E2 ന്റെ ഭാഗമാകാൻ കഴിയില്ല അതുപോലെ സമാന വാദമനുസരിച്ച് L4 ഈ വശത്ത് മാത്രമാണ് അത് E2 ൽ ആണ് ഇത് E2 നെക്കുറിച്ചാണ് നോക്കുന്നത് E1 നെക്കുറിച്ചല്ല അതിനാൽ ഈ രണ്ട് ജോലികൾക്കും ആവശ്യമായ വ്യവസ്ഥകൾ ഇവയാണ് ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് എന്നാൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യാം കാരണം ഇത് യഥാർത്ഥത്തേക്കാൾ കുറവാണ് അതുകൊണ്ടാണ് ഈ സങ്കീർണ്ണമായ നിയമങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ചില സെറ്റ് ഓപ്പറേഷനുകളിലേക്ക് പോകാം നമ്മൾ കാണാൻ പോകുന്ന ആദ്യ കാര്യം എന്തെന്നാൽ സെറ്റ് ഓപ്പറേറ്റർ E2 എന്നത് E2 E1 എന്നിവയ്ക്ക് തുല്യമാണ് ഇത് എപ്പോഴാണ് സംഭവിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് ഇത് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ യൂണിയൻ അല്ലെങ്കിൽ ഇൻറർ സെക്ഷനിൽ ആണ് തീർച്ചയായും സെറ്റ് ഡിഫറൻസ് അല്ല ഇത് ഒരുപക്ഷേ മനസ്സിലാക്കാൻ എളുപ്പമാണ് അടുത്തത് കൂടുതൽ രസകരമാണ് ഒരു ഓർഡറാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഓർഡർ പ്രധാനമാണോ ഓർഡർ യൂണിയൻ ആയിരിക്കുമ്പോൾ ഇത് സത്യമാണ് ഇത് ഇൻറ്റർസെക്ഷൻ ആയിരിക്കുമ്പോൾ ഓർഡർ പ്രശ്നമല്ല പക്ഷേ തീർച്ചയായും ഇത് ഒരു സെറ്റ് ഡിഫറെൻസ് ആയിരിക്കുമ്പോൾ ഇത് ശരിയല്ല അടുത്തത് ഈ സെറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന സെലക്ഷൻ ആണ് ഇത് വേർതിരിക്കാവുന്ന സെലക്ഷന് തുല്യമാണ് സെറ്റ് പ്രവർത്തിക്കുമ്പോൾ യൂണിയൻ അല്ലെങ്കിൽ ഇൻറ്റർസെക്ഷൻ സെറ്റ് ഡിഫറൻസ് എന്നിവ പ്രശ്നമല്ല കാരണം തിരഞ്ഞെടുക്കൽ ഓരോന്നിലും വെവ്വേറെയായിരിക്കും എന്നിരുന്നാലും രസകരമായ ഒരു സംഭവം ഈ സാഹചര്യത്തിൽ ഇനിപ്പറയുന്ന നിയമം പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കൽ നടത്തുന്നത് E2 സ്വയം ചെയ്യുന്നതല്ല ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ സെറ്റ് ഡിഫറൻസ് ആയിരിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കും പക്ഷേ യൂണിയൻ അല്ല നിങ്ങൾ അൽപനേരം ചിന്തിച്ചാൽ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അവസാനമായി പ്രൊജക്ഷനെ കുറിച്ച് സംസാരിച്ച് എക്സ്പ്രഷൻ അവസാനിപ്പിക്കാം പ്രൊജക്ഷൻ ഒരു സെറ്റിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നത് യൂണിയനിൻ ആണെങ്കിൽ മാത്രം വേർതിരിക്കാനാകുംസെറ്റ് ഡിഫറൻസിലോ ഇൻറ്റർസെക്ഷനിലോ സാധിക്കുകയില്ല കാരണം യൂണിയനിലും ഇൻറ്റർസെക്ഷനിലും പ്രൊജക്ഷൻ പ്രവർത്തിക്കുന്നു കാരണം പ്രൊജക്ഷന് ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം വ്യത്യസ്ത മൂല്യനിർണ്ണയ പദ്ധതികൾ ഉപയോഗിച്ച് ഒരേ ക്വയറി വിലയിരുത്തുന്നതിന് ഈ എക്സ്പ്രഷനുകൾ തുല്യമായ പദപ്രയോഗ നിയമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണം നമ്മൾ അടുത്തതായി പരിശോധിക്കും ഇതാണ് നമ്മ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ബാങ്കിംഗ് സ്കീം ബ്രാഞ്ച് ഉപഭോക്താവ് അക്കൌണ്ട് വായ്പ നിക്ഷേപകൻ വായ്പക്കാരൻ കൂടാതെ ഈ ചോദ്യമാണ് നമ്മൾ പരിഹരിക്കേണ്ടതെന്ന് കരുതുക നമുക്ക് ഈ എബിസി എന്ന നഗരത്തിലെ അക്കൌണ്ടിൽ ബാലൻസ് 10000ൽ മുകളിലുള്ള എല്ലാ ഉപഭോക്താക്കളുടെയും പേരുകൾ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് എഴുതണമെങ്കിൽ അത് തത്തുല്യമായ ആൽജിബ്രാ എക്സ്പ്രഷൻ ആണ് ഇത് ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം ഞാൻ ഇത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചോദ്യം പരിഹരിക്കാനുള്ള ഒരു വഴിയാണിത് ആദ്യം അക്കൌണ്ടും നിക്ഷേപവും നാച്ചുറൽ ജോയിൻ ചെയ്യാം അത് ശാഖയുമായി നാച്ചുറൽ ജോയിൻ ചെയ്യാം ഒടുവിൽ അക്കൌണ്ട് ABC നഗരത്തിലും ബാലൻസ് 10000 മുകളിലും ഉണ്ടായിരിക്കേണ്ട രണ്ട് വ്യവസ്ഥകൾ ഉപയോഗിക്കാം ഈ വിധത്തിൽ നമ്മൾ ആപേക്ഷിക ബീജഗണിത പ്രയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ അനുബന്ധമായ ട്രീ ഞാൻ അടുത്തതായി കാണിക്കുന്ന രീതിയിൽ വരയ്ക്കാം ആദ്യം ചെയ്യേണ്ടത് അക്കൌണ്ടും നിക്ഷേപകനും നാച്ചുറൽ ജോയിൻ ചെയ്തു അതാണ് ശാഖയുമായുള്ള നാച്ചുറൽ ജോയിൻ തുടർന്ന് ഈ രണ്ട് കാര്യങ്ങളുടെയും തിരഞ്ഞെടുക്കൽ വ്യവസ്ഥകൾ ബ്രാഞ്ച് നഗരം എബിസിക്കും ബാലൻസ് 10000 തുല്യമാണ് ഇത് പ്രയോഗിച്ചതിനു ശേഷം ഒടുവിൽ സിനേം എന്നതിലെ പ്രൊജക്ഷൻ എടുക്കുന്നു ആ ആൾജിബ്ര സമവാക്യത്തിന് തുല്യമായ ആവിഷ്കാര ട്രീയാണിത് നമ്മൾ നേരത്തെ വാദിച്ചതുപോലെ ഇത് വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും അതിനായി മുമ്പ് കണ്ട ഈ തത്തുല്യമായ നിയമങ്ങൾ നമുക്ക് ഉപയോഗിക്കാം വ്യത്യസ്ത തുല്യതാ നിയമങ്ങൾ പ്രയോഗിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും പുതിയ ട്രീ താഴെ പറയുന്ന രീതിയിൽ എഴുതാം ബ്രാഞ്ച് സിറ്റിയിൽ സെലക്ഷൻ നടത്തുന്ന ബ്രാഞ്ചാണിത് ഒരിക്കൽ കൂടി ഇത് ചെയ്യാൻ കഴിയും കാരണം ബ്രാഞ്ച് നഗരം ശാഖയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ബ്രാഞ്ച് നഗരം ABC ആണ് അപ്പോൾ ബാലൻസിൽ ഒരു അക്കൌണ്ട് ഉണ്ട് ബാലൻസിൽ വീണ്ടും തിരഞ്ഞെടുക്കൽ ഇത് ചെയ്യാം കാരണം ബാലൻസ് വരുന്നത് അക്കൌണ്ട് പട്ടികയിൽ നിന്ന് മാത്രമാണ് ഇത് പിന്നീട് ജോയിൻ ചെയ്യാം ബാലൻസ് ശാഖയുടെ സ്വാഭാവിക ചേർച്ചയും അക്കൌണ്ടും എടുക്കാം തുടർന്ന് നമ്മൾ നിക്ഷേപകനുമായുള്ള നാച്ചുറൽ ജോയിൻ എടുത്തു ഒടുവിൽ പേരിന്റെ പ്രൊജക്ഷൻ എടുത്തു ഇപ്പോൾ ഇതിന് തുല്യമായ ആപേക്ഷിക ബീജഗണിതം എന്താണ് തത്തുല്യമായ റിലേഷണൽ ബീജഗണിതം ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം ഇത് അക്കൌണ്ടിന്റെ 10000 എന്നതുമായിജോയിൻ ചെയ്യാം അതിനുശേഷം ഇവ ഒന്നിച്ച് നിക്ഷേപകനുമായി ജോയിൻ ചെയ്യാം ഇപ്പോൾ ചോദ്യം ഇതാണ് ഈ ട്രീയും ഈ ഇക്സ്പ്രെഷനും നോക്കിയാൽ എന്തുകൊണ്ടാണ് അവ തുല്യമാണെന്ന് അവകാശപ്പെടാൻ കഴിയുക ഈ ട്രീ ലഭിക്കുന്നതിന് നമുക്ക് വ്യത്യസ്ത തുല്യതാ നിയമങ്ങൾ തുടർച്ചയായി പ്രയോഗിക്കാൻ കഴിയും ഇത് ഉപയോഗിച്ച് ഒരു ട്രീയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ കഴിയും അതുകൊണ്ടാണ് അവ തുല്യമാകാം ഒരിക്കൽ കൂടി രണ്ടാമത്തെ ട്രീ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണെന്ന് നമുക്ക് വാദിക്കാം